ഡിസൈൻ തിങ്കിംഗ് ഈ സെഷൻ ലേക്ക് സ്വാഗതം മൾട്ടി വൈസ് എന്ന ടോപ്പിക്ക് സംബന്ധിച്ചാണ് ഈ സെഷൻ മൾട്ടി വൈസ് എന്നതിൻറെ പ്രശസ്തമായ രൂപം അഞ്ചു വൈസ് എന്നാണ് എഴുപതുകളിൽ ടൊയോട്ട കമ്പനി രൂപപ്പെടുത്തിയ ഇത് പിന്നീട് വളരെയധികം പ്രശസ്തമായി ഇത് കുട്ടികളൊക്കെ മനസ്സിലാവുന്ന ഒരു മാർഗമാണ് എക്സാമ്പിൾ കാണിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന ഒരു കൂട്ടം ചോദ്യങ്ങളാണ് അഞ്ചു വൈസ്എന്നതിൽ അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ്ചോദ്യം ആഴങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടം ഉത്തരങ്ങൾ ലഭിക്കുന്നു അങ്ങനെ നമുക്ക് പരസ്പര ബന്ധമുള്ള യുക്തിസഹം ആയിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നു നിങ്ങൾ ആദ്യം ചില കാര്യങ്ങൾ വിചാരിക്കുന്നു അതിനുശേഷം കസ്റ്റമറോട് അല്ലെങ്കിൽ എക്സ്പർട്ട്ൻറെ അടുത്ത് സംസാരിക്കുന്നു അങ്ങനെ ഒന്നിനെ മറ്റൊന്നായി ബന്ധിപ്പിക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു മാർഗമാണ് ഇതിനെ നമുക്ക് ഗ്രാഫ് ആയിട്ട് സൂചിപ്പിക്കുവാൻസാധിക്കുന്നതാണ് ഇത് ടയോട്ട കമ്പനിയുടെ 5 വൈസ് സമീപനമാണ് നമുക്ക് നമ്മുടെ സൌകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഒരു ഉദാഹരണം നോക്കാവുന്നതാണ് എൻറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എല്ലാദിവസവും ക്ലാസ്സിൽ നേരം വൈകീട്ടാണ് വരുന്നത് സ്ഥിരമായി ക്ലാസ്സിൽ കൃത്യമായി വന്നിരുന്നു കുട്ടിയാണ് അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ നേരം വൈകി വരുന്നത് കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഇതു ഉദാഹരണമായിഎടുത്തുകൊണ്ട് അഞ്ച് വൈസ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ വൈഎന്തുകൊണ്ടാണ് ആ കുട്ടി സ്ഥിരമായി സ്കൂളിലേക്ക് വൈകി വരുന്നത് കുട്ടി നേരം വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ടാണോ നമുക്കൊരു ഗ്രാഫിക്കൽ ഫോർമാറ്റ് പരിശോധിക്കാം കുട്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ട് കുട്ടി വളരെ വളരെ വൈകീട്ടാണ് എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് കുട്ടി വൈകി ക്ലാസിലേക്ക് വരുന്നു X axis കാണിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടതുഭാഗത്തുംY axis കാണിച്ചിരിക്കുന്നു വളരെ ലളിതമാണ് താഴെ assumption കാണിച്ചിരിക്കുന്നു അതിനൊരു വിശകലന രീതിയിൽ വിശകലനംചെയ്യാവുന്നതാണ് ദൈനംദിനം ഉള്ള സമയങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം ഓരോ ദിവസവും അവൻ എപ്പോഴാണ്കിടക്കാൻ പോകുന്നത് അവൻ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഇങ്ങനെയുള്ളഉള്ള കാര്യങ്ങൾരേഖപ്പെടുത്തണം പ്ലോട്ട് വരക്കണം ഇവിടെ മറ്റൊരു Assumption കൂടി പ്രസക്തമാണ് അവൻ നേരത്തെ എഴുന്നേൽക്കുക ആണെങ്കിൽ നേരത്തെ ക്ലാസ്സിൽ വരുന്നതായിരിക്കും അവൻ നേരത്തെ കിടക്കുകയാണെങ്കിൽ അവന് നേരത്തെ എഴുന്നേൽക്കാനുംനേരായ സമയത്ത് ക്ലാസിലേക്ക് വരുവാനും സാധിക്കും എന്നതാണ് ഇവിടെയുള്ള മറ്റൊരു അനുമാനം നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് അവൻ നേരം വൈകി കിടക്കുന്നു അതുകൊണ്ട് നേരം വൈകി എഴുന്നേൽക്കുന്നു എട്ടുമണിക്ക് അല്ലെങ്കിൽഎട്ടരയ്ക്ക് എഴുന്നേൽക്കുന്നു ക്ലാസ്സിലേക്ക് വരുവാൻ നേരം വൈകുന്നു കുട്ടി രാവിലെ നാലുമണിക്ക് ആണ് കിടക്കുന്നത് അതുകൊണ്ട് അവന് ശരിക്ക് ഉറക്കംലഭിക്കുന്നില്ല X axis ലേക്ക് വീണ്ടും നോക്കുക കിടക്കുവാൻ വളരെ വൈകുന്നതെന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിയുടെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യുന്നു അവൻ നേരത്തെ എഴുന്നേൽക്കുക ആണെങ്കിൽ അവന് സമയത്തിന് ക്ലാസ്സിൽ വരുവാൻ സാധിക്കും അത് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും രണ്ടാമത്തെ ലെവൽ എന്തുകൊണ്ടാണ് അവൻ നേരം വൈകി കിടക്കുന്നത് മൂന്നാമത്തെ ലെവലിലേക്ക് പോകാവുന്നതാണ് ഞാനവനോട് ചോദിച്ചു അവൻറെ ഉത്തരം എനിക്ക് വളരെയധികം കോഴ്സുകൾ ചെയ്യാനുണ്ട് എന്നായിരുന്നു ഏകദേശം 10 കോഴ്സുകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്ഭുതകരം 10 കോഴ്സുകൾ എന്നാൽ പത്ത് Deadlines ഉണ്ടാവും അതുകൊണ്ട് അവൻ വളരെയധികം തിരക്കുള്ള വൻആയിരിക്കും അതുകൊണ്ടായിരിക്കാംക്ലാസിലേക്ക് നേരം വൈകി വരുന്നത് അതിനാൽ തന്നെ അവൻ നേരം വൈകിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻനേരം വൈകുന്നു അതുകൊണ്ടായിരിക്കാംക്ലാസിലേക്ക് നേരം വൈകി വരുന്നത് അതുകൊണ്ട് കോഴ്സുകളുടെ എണ്ണം താഴേക്ക് കൊണ്ടുവരുകഎന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് ലളിതമായ സൊല്യൂഷൻ അവൻറെ കഴിഞ്ഞകാലഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻറെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർഥിക്ക്കോഴ്സുകൾ അധികമില്ലാത്ത സമയത്ത് അവൻ ഏതു സമയത്താണ് കിടന്നിരുന്നത് എഴുന്നേറ്റ് കൊണ്ടിരുന്നത്എങ്ങനെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അവൻറെ ഞാൻ വിലയിരുത്തി കൊണ്ടിരിക്കുന്ന പ്രകടനം on time പ്രകടനം ആണ് ഇവിടെ പ്രസക്തമായ വേരിയബിൾ വളരെയധികം കോഴ്സുകൾക്ക് ചേരുക അല്ലെങ്കിൽ അധികം കോഴ്സുകൾക്ക് ചേരാ തിരിക്കുക എന്നുള്ളതാണ് അധികം കോഴ്സുകൾക്ക് ചേർന്നിട്ട് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് നേരത്തെ കിടക്കാനുംനേരത്തെ എഴുന്നേൽക്കാനും നേരത്തെ സമയത്തിന് ക്ലാസ്സിലേക്ക് വരുവാൻ സാധിക്കും ഞാൻ മറ്റൊരു പ്രശ്നം എടുക്കുന്നു ഇപ്രാവശ്യം കൂടുതൽ ഗൌരവമായ ഒരു പ്രശ്നമാണ് അവതരിപ്പിക്കുന്നത് അഞ്ച് വൈസ് കാണിക്കാൻ വേണ്ടി ഉദാഹരണത്തിൽ എൻറെ കക്ഷിക്ക്പ്രധാനപ്പെട്ട വരുമാനം ലഭിച്ചിരുന്ന ഓട്ടോമൊബൈൽ സർവീസ് എന്നതിൽ നിന്നായിരുന്നു

വണ്ടികളുടെ സർവീസ് Repairs എന്നിവ ചെയ്തിരുന്നു അതിൽ നിന്ന് പ്രധാനപ്പെട്ട വരുമാനം ലഭിച്ചിരുന്നു അയാൾ ഇവിടെ നിന്നും വളരെ ദൂരം അല്ലാതെ ഒരു ഡീലർഷിപ്പ് നടത്തുകയായിരുന്നു രണ്ടു ചക്ര വണ്ടികളുടെ സർവീസിംഗ് ആയിരുന്നു ഉള്ള പ്രധാനപ്പെട്ട വരുമാനമാർഗം ഒരു ദിവസം അയാൾ വിഷമിച്ചിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്താണ് വിഷമിക്കുന്നത് അയാൾ എന്നോട് പറഞ്ഞു എൻറെ പ്രധാനപ്പെട്ട വരുമാനം വളരെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വളരെ ഗൌരവം ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു രണ്ടോ മൂന്നോ വർഷം വണ്ടി സർവീസ് ചെയ്യുവാൻ കസ്റ്റമർഇവിടേയ്ക്ക് വരുന്നു ശേഷം കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരുന്നില്ല കസ്റ്റമർ അവരുടെ വീടിനടുത്തുള്ള Mechanic നെ കാണിച്ചിട്ട് സർവീസ് ചെയ്യിക്കുന്നു കാത്തിരിക്കൂ ഞാൻ ഒന്നു വിശകലനം ചെയ്തു കൊള്ളട്ടെ എൻറെ മനസ്സിൽ അഞ്ച് വൈസ് യിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഓട്ടോ മൊബൈൽ സർവീസ് സർവീസിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാനം താഴേക്ക് പോയത് ഒരു ഉത്തരം തരുവോ ഉത്തരം കസ്റ്റമേഴ്സ് വളരെ കുറവായിരുന്നു എന്നുള്ളതായിരുന്നു നിങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു പ്ലോട്ട് വരച്ചു എൻറെ വിദ്യാർഥിയുടെ കേസിൽ നിങ്ങൾ കണ്ടഅതേപോലെതന്നെ താഴെ X Axis പക്ഷേ എൻറെ ഒരു കൂട്ടുകാരൻ ആയിരുന്നു എൻറെ നല്ലൊരു കൂട്ടുകാരൻ ആയിരുന്നു അയാൾ എന്നോട് പറഞ്ഞു കസ്റ്റമേഴ്സ് വളരെയധികം വരുന്നില്ല അതുകൊണ്ടാണ് വരുമാനം താഴെ വന്നത് അതുകൊണ്ട് അതിൻറെ വിപരീതവും ശരിയാണ് കസ്റ്റമേഴ്സ് വളരെയധികം വരുകയാണെങ്കിൽ അയാളുടെ വരുമാനം തീർച്ചയായും കൂടും നേരെയുള്ള ബന്ധമാണുള്ളത് യാഥാർത്ഥ്യം ഇങ്ങനെ ലളിതം ആയിരിക്കില്ല നിങ്ങൾക്ക് ഇതൊരു histogram ആയി വരയ്ക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ പ്രാവശ്യം കസ്റ്റമർ വന്നാൽ കൂടുതൽ വരുമാനം ഉണ്ടാവും എങ്ങനെയാണ് ഇതൊരു histogram ആയി വരയ്ക്കുക ഒരു കഷണം പേപ്പർ എടുക്കുക ഓരോ ഓരോ പ്രാവശ്യംകസ്റ്റമർ വരുമ്പോൾ നോട്ട് ചെയ്യുക എന്തു വരുമാനമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നോട്ട് ചെയ്യുക എൻറെ കൂട്ടുകാരനോട് അങ്ങനെ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്തു ബന്ധമുണ്ട് എന്ന് മനസ്സിലായി പലപ്പോഴും സൌജന്യമായി സർവീസിങ് ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു ഇത് ദീർഘകാലത്തേക്ക് ഉള്ള ഒരു സൊലൂഷൻ അല്ല ഇത് ചെറിയ കാലത്തേക്കുള്ളസൊലൂഷൻമാത്രമാണ് ഓരോ ഓരോ പ്രാവശ്യവും അങ്ങനെ പ്രമോഷൻ കൊടുക്കുമ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വരുമാനംകൂടുകയും അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻറെവരുമാനം താഴേക്ക് വരികയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ആളുകൾ ലോക്കൽ മെക്കാനിക്കിനെ കാണിക്കുന്നു പ്രധാനപ്പെട്ടചോദ്യം എങ്ങനെ അദ്ദേഹത്തിൻറെ വരുമാനം കൂട്ടാൻ സാധിക്കും ഉത്തരം കസ്റ്റമർ എന്നാണ് കസ്റ്റമർഎന്ന വ്യക്തിയെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് പല ഉപഭോക്താക്കളുടെയും വീടുകൾ വളരെ ദൂരെ ആണ് അതുകൊണ്ടാണ് ഈ കടയിലേക്ക് വരാത്തത് ഇന്നത്തെ പ്ലോട്ട് എനിക്ക് മനസ്സിലായി ദൂരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കട ഉപഭോക്താക്കളുടെവീടിനടുത്ത് ആണെങ്കിൽ എൻറെ കൂട്ടുകാരൻറെ വരുമാനം കൂടും വരുമാനം എന്നത് കസ്റ്റമറുടെ ഭവനവും കടയും തമ്മിലുള്ള ദൂരത്തെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നു എങ്ങനെ കസ്റ്റമറുടെഭവനവും കടയും തമ്മിലുള്ള ദൂരം കുറയ്ക്കുവാൻ സാധിക്കും ഉത്തരംഎൻറെ മനസ്സിൽ ഉണ്ട് ഈ നഗരത്തിലെ പല ഭാഗങ്ങളിൽ പല വർക്ക് ഷോപ്പുകൾ ഉണ്ട് എൻറെ കൂട്ടുകാരൻ മറ്റുള്ള വർക്ക് ഷോപ്പുകളുമായി ഒരു tieup ഉണ്ടാക്കിയാൽ ലോക്കൽ മെക്കാനിക്സും ആയിട്ട് tieup ഉണ്ടാക്കിയാൽ അതോടെ പരിഹാരമാകും അവരെ മത്സരാർത്ഥികൾ എന്ന് കാണാതെ collaborators എന്ന രീതിയിൽകണ്ടാൽ മതി ഒരു arrangement ഉണ്ടാക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ ഈ കടയിലേക്ക് ഡയറക്ട് ചെയ്യും വരുമാനത്തിന് ഒരു പങ്ക്നൽകിയാലും വിരോധമില്ല ഇവിടെ നല്ല ആശയമാണ് Optimal solution അല്ല ഇവിടെ കണ്ടുപിടിക്കുന്നത് വരുമാനത്തിന് ഒരു പങ്ക് കിട്ടിയാൽ പോലും എൻറെ കൂട്ടുകാരൻറെ സ്ഥിതി മെച്ചപ്പെടും ഇതൊരു Compromise ആണ് സാഹചര്യം നിങ്ങളെ ഒരു കോംപ്രമൈസ് എന്നതിലേക്ക്എത്തിക്കുന്നു Design thinker എന്ന രീതിയിൽ ഇങ്ങനെ ഒരു സൊലൂഷൻ ആണ്ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ യഥാർത്ഥ പ്രശ്നം കസ്റ്റമറുടെ വീടും ഓട്ടോമൊബൈൽസർവീസ് സ്റ്റേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ല കസ്റ്റമർവളരെയധികം ദൂരം യാത്ര ചെയ്യുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം ഉപഭോക്താക്കൾ വളരെയധികം ദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് എൻറെ കൂട്ടുകാരൻറെ വരുമാനം താഴെ വന്നു ഇവിടെ വാക്കുകളിൽ മാറ്റംവരുത്തേണ്ടി വരുന്നതാണ്ണ്സർവീസ് ചെയ്യുന്ന ആളുകൾ സ്ഥലത്ത് പോയി വണ്ടിയെടുത്ത് സർവീസ് ചെയ്തിട്ട്തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അധികം ആളുകൾ ഒരേസമയത്ത് സർവീസ് ആവശ്യപ്പെട്ടാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ സൊലൂഷന് മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്